എല്ലാവർക്കും നമസ്കാരം സർവീസ് മാർക്കറ്റിംഗ് വിത്ത് എ പ്രാക്ടിക്കൽ അപ്പ്രോച്ചിന്റെ അവതരണങ്ങൾ നമ്മൾ തുടരും അപ്പോൾ ഇന്ന് നമ്മൾ ആരോഗ്യ പരിപാലന സേവനങ്ങളും അതിന്റെ കീഴിൽ വരുന്ന മറ്റു പ്രൊഫഷണൽ സേവനങ്ങളും പരിചയപ്പെടും നമുക്ക് ആശുപത്രി സേവന വിപണനം ഉണ്ട് അതിനാൽ ആരോഗ്യ പരിപാലന വ്യവസായം മനുഷ്യ ക്ഷേമവുമായി ബന്ധപ്പെട്ട ഒരു തീവ്രമായ സേവനമാണ് ആശുപത്രി വ്യവസായം സാമൂഹിക വിപണനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സർക്കാർ ആശുപത്രികൾ കൂടാതെ ഈ വ്യവസായത്തിൽ ധാരാളം സ്വകാര്യ കളിക്കാർ ഉണ്ട് ഇതിൽ കൺസൾട്ടേഷൻ മരുന്ന് ആരോഗ്യ ഉപകരണങ്ങൾ എന്നിവ ഉൾക്കൊള്ളുന്നു ഇവിടെയുള്ള സേവന ത്രികോണത്തിൽ ഹോസ്പിറ്റൽ നടത്തുന്ന കമ്പനയും കൂടാതെ ആരോഗ്യ പരിപാലന സേവനങ്ങൾ നൽകുന്ന ഡോക്ടറും ആരോഗ്യ പരിപാലന സേവനങ്ങളുടെ ഉപഭോക്താവായ രോഗിയും ഉണ്ട് ഹോസ്പിറ്റൽ സർവീസ് മാർക്കറ്റിംഗിന്റെ 7P കൾ ഇവിടെ ഈ വ്യവസായത്തിലെ പ്രധാന ഉൽപ്പന്നമായ കൺസൾട്ടേഷനാണ് ഉൽപ്പന്നം കൺസൾട്ടേഷനു പുറമേ ഈ രോഗനിർണയം ചികിത്സ അപകടം ആംബുലൻസ് എമർജൻസി സർവീസ് ഫാർമസി എന്നിവയും ആശുപത്രി നൽകുന്നു വില ഒരു പ്രത്യേക ചികിത്സയ്ക്കുള്ള വിലനിർണ്ണയം ആശുപത്രിയിൽ നിർണായക ഘടകമാണ് ആശുപത്രിയിൽ വിവിധ ക്ലാസുകൾക്ക് വ്യത്യസ്ത വിലയുണ്ട് ഉദാഹരണത്തിന് സൂപ്പർ ഡീലക്സ് ക്ലാസ് ഉണ്ട് അതിനാൽ ടിവി ഫ്രിഡ്ജ് ഫോൺ ടീ അറ്റാച്ച്ഡ് ബാത്ത്റൂം എന്നിവയ്ക്കൊപ്പം എയർകണ്ടീഷൻ ചെയ്തതും ഒറ്റയ്ക്ക് താമസിക്കാവുന്നതുമയ ക്യാബിന്റെ വില ഇതെല്ലാം ഉയർന്ന വിലയ്ക്ക് പോകുന്നു ഇനി സ്വകാര്യ ക്ലാസ് ഉണ്ട് അത് ഇരട്ട പങ്കിടലാണ് കൂടാതെ സൂപ്പർ ഡീലക്സ് ക്ലാസിന് സമാനമായ മറ്റ് സൌകര്യങ്ങളും ഉണ്ട് പിന്നെ ഒരു ക്യൂബിക്കൽ ക്ലാസ് ഉണ്ട് അതു പാർട്ടീഷനില്ലാത്ത ഒരു വലിയ മുറിയിൽ ഒരു വിഭജന കിടക്കയാണ് എസിയില്ലാത്തതും കുറഞ്ഞ ചെലവുള്ളതുമായ നിരവധി കിടക്കകളുള്ള ജനറൽ ക്ലാസ്സുമുണ്ട് മിക്കപ്പോഴും അല്ലെങ്കിൽ അധിക സമയങ്ങളിലും ഡോക്ടർമാരാണ് രോഗിക്ക് ഏത് തരത്തിലുള്ള പരിചരണം നൽകണമെന്ന് തീരുമാനിക്കുന്നത് എന്നത് ഇപ്പോൾ ഇവിടെ പരാമർശിക്കേണ്ടത് പ്രധാനമാണ് ഉദാഹരണത്തിന് രോഗിക്ക് സംസാരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ കിടക്കയിൽ ചലിക്കാനാകുന്നില്ലെങ്കിൽ ആവശ്യമെങ്കിൽ ആരെങ്കിലും അലാറം ഉയർത്തുന്നതിനായി അവനെ ഇരട്ട പങ്കിടലിൽ നിലനിർത്തുന്നത് നല്ലതാണ് മറുവശത്ത് സൂപ്പർ ഡീലക്സ് ക്ലാസ് വളരെ ചെലവേറിയതാണ് പക്ഷേ രോഗിയുടെ ബന്ധുക്കളെയോ സുഹൃത്തുക്കളെയോ ആ ക്യാബിനിൽ തന്നെ നിലനിർത്താനുള്ള വ്യവസ്ഥയുണ്ട് അതിനാൽ ഒരു ആശുപത്രിയിൽ രോഗി ആസ്വദിക്കാൻ പോകുന്ന സൌകര്യത്തിന്റെ വിലനിർണ്ണയത്തിലെ ചില പ്രശ്നങ്ങളാണിവ ആശുപത്രി സേവനങ്ങളുടെ സ്ഥലവും വിതരണവും മാർക്കറ്റിംഗ് മിശ്രിതത്തിൽ നിർണായക പങ്ക് വഹിക്കുന്നു ആശുപത്രിയുടെ സ്ഥാനവും ആശുപത്രിയുടെ കണക്റ്റിവിറ്റിയും പ്രധാന ഘടകങ്ങളാണ് ആശുപത്രികൾ അസൌകര്യങ്ങളും അന്തരീക്ഷ മലിനീകരണവും ഒഴിവാക്കണം മതിയായതും വേഗത്തിലുള്ളതുമായ ഗതാഗതവും ആശയവിനിമയ സൌകര്യവും ആവശ്യമാണ് പ്രമോഷൻ ഹോസ്പിറ്റൽ മാർക്കറ്റിംഗിൽ രണ്ട് തരം പ്രൊമോഷൻ തന്ത്രങ്ങൾ ഉപയോഗിക്കുന്നു ഒന്ന് വ്യക്തിഗത പ്രമോഷൻ മറ്റൊന്ന് വ്യക്തിത്വരഹിതമായ പ്രമോഷൻ അതുകൊണ്ട് വ്യക്തിപരമായ പ്രചാരണത്തിന് വാക്കാലുള്ള പ്രചരണവും പൊതുജന സമ്പർക്കവും ഉണ്ട് അതേസമയം വ്യക്തിത്വരഹിതമായ പ്രമോഷനിൽ പത്രക്കുറിപ്പുകൾ പരസ്യങ്ങൾ ഹോർഡിങ്ങുകൾ മതിൽ പെയിന്റിംഗ് ഇന്റർനെറ്റ് എന്നിവ അടങ്ങിയിരിക്കുന്നു അപ്പോൾ നമ്മൾ ആറാമത്തെ പിയിലേക്ക് വരുന്നു അത് ആളുകളാണ് അതിനാൽ ഈ ആളുകൾ ഡോക്ടർമാർ നഴ്സുമാർ സപ്പോർട്ടിംഗ് സ്റ്റാഫ് മാനേജർ റിസപ്ഷനിസ്റ്റ് ഫാർമസി ജീവനക്കാർ എന്നിവരടങ്ങുന്നു അവരുടെ ചുമതലകൾ ഫലപ്രദമായി നിർവഹിക്കുന്നതിന് പ്രത്യേക അറിവ് ആവശ്യമാണ് അതിനാൽ അവർക്കെല്ലാം പ്രത്യേക അറിവ് ആവശ്യമാണ് ഭൌതിക തെളിവുകൾ ഈ വ്യവസായത്തിൽ ഭൌതിക തെളിവുകൾ കെട്ടിടങ്ങൾ പാത്തോളജി ലാബുകൾ ഫാർമസി സെന്റർ ലോഗോ ലിഫ്റ്റുകൾ ഡ്രസ് കോഡ് മുതലായവ ആകാം അതിനാൽ സർക്കാർ ആശുപത്രിയുടെ കാര്യത്തിൽ സേവനം ഏതാണ്ട് സൌജന്യമായി നൽകുമ്പോൾ അവർ ശാരീരിക തെളിവുകൾ അധികം നോക്കില്ല പലപ്പോഴും കെട്ടിടങ്ങൾ നന്നായി നോക്കുന്നില്ല പ്ലാസ്റ്റർ വീഴുന്നു പൈപ്പുകൾ പൊഴിക്കുന്നു ടാപ്പുകൾ പ്രവർത്തിക്കുന്നില്ല എന്നാൽ സ്വകാര്യ ആശുപത്രികളിൽ ഇത് വളരെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് ആശുപത്രി കെട്ടിടങ്ങൾ പാത്തോളജി ലാബുകൾ ഫാർമസി സെന്ററുകൾ എന്നിവ വൃത്തിയായി സൂക്ഷിക്കേണ്ടതുണ്ട് ആശുപത്രി സേവന വിപണനത്തിന്റെ 7P കൾ വരുന്നു പ്രക്രിയയുണ്ട് ആശുപത്രികളിൽ രണ്ട് തരം പ്രക്രിയകളുണ്ട് ഒന്ന് ഔട്ട്പേഷ്യന്റിനും മറ്റൊന്ന് കിടപ്പുരോഗിക്കും ഔട്ട്പേഷ്യന്റിന്റെ പ്രക്രിയകൾ ഡോക്ടറെ കണ്ടുമുട്ടൽ രോഗനിർണയം ചികിത്സ മരുന്ന് എന്നിവ അതേസമയം കിടപ്പുരോഗികൾക്കുള്ള സേവനങ്ങൾ യോജ്യമായ വരവ് രജിസ്ട്രേഷൻ രോഗനിർണയം ചികിത്സ ഭാവി പ്രവർത്തനവുമായി ബന്ധപ്പെട്ട നിർദ്ദേശം ഡിസ്ചാർജ് പേയ്മെന്റ് എന്നിവയാണ് അതിനാൽ ഇവ കിടത്തിച്ചികിത്സാ സേവനങ്ങളാണ് Refer Slide time 0531 ഹോസ്പിറ്റൽ വ്യവസായം ഇന്ത്യയിൽ അതിവേഗം വളരുന്ന വ്യവസായമാണ് ഇപ്പോൾ വലിയ ബ്രാൻഡുകൾ വിപണിയിൽ പ്രവേശിച്ചു സേവന മിശ്രിതങ്ങളിൽ പ്രത്യേക അറിവ് രോഗികളുടെ മികച്ച ചികിത്സയ്ക്കുള്ള അടിസ്ഥാനപരവും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ആവശ്യകതകളായതിനാൽ ആളുകൾ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് അടുത്തതായി നമ്മൾ ആരോഗ്യ പരിപാലന സേവനങ്ങളിലേക്ക് അതായത് മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ സേവനങ്ങളുടെ വിപണങ്ങളിലേക്ക് പോകും മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ സേവനം ഒരു അനുബന്ധ ആരോഗ്യ പ്രൊഫഷനാണ് ആരോഗ്യ പരിപാലന പ്രൊഫഷണലുകൾ നിർദ്ദേശിച്ചതുപോലെ ട്രാൻസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ വോയ്സ് റെക്കോർഡ് ചെയ്ത റിപ്പോർട്ട് ടെക്സ്റ്റ് ഫോമിലേക്ക് പരിവർത്തനം ചെയ്യുന്ന പ്രക്രിയയാണ് ഇത് രോഗിയുടെ ചരിത്രം ലാബ് റിപ്പോർട്ടുകൾ എക്സ് റേ റിപ്പോർട്ടുകൾ ഓപ്പറേറ്റീവ് റിപ്പോർട്ടുകൾ മുതലായവ ഇതിൽ ഉൾപ്പെടുന്നു ഇത് ഭാവി അവലോകനത്തിനായി ഡോക്ടർമാർ ഉപയോഗിക്കുന്നു വർദ്ധിച്ച ഉൽപാദനക്ഷമത ഡോക്യുമെന്റേഷനിലെ കൃത്യത മെച്ചപ്പെട്ട തിരിച്ചടവ് മികച്ച ആശയവിനിമയം നിയമ പ്രമാണം എന്നിവയാണ് റെക്കോർഡ് സൂക്ഷിക്കുന്നതിന്റെ പ്രയോജനങ്ങൾ അതിനാൽ ഇവയെല്ലാം ആശുപത്രിയിൽ രേഖകൾ സൂക്ഷിക്കുന്നതിന്റെ പ്രധാന പ്രയോജനങ്ങളാണ് ഡോക്ടർമാർക്ക് റിപ്പോർട്ട് എഴുതാൻ മതിയായ സമയം ലഭിച്ചേക്കില്ല അതിനാൽ അവർ മൈക്രോഫോണിനെക്കുറിച്ച് സംസാരിക്കുന്നു കൂടാതെ ട്രാൻസ്ക്രിപ്ഷൻ മറ്റൊരു രാജ്യത്ത് എവിടെയെങ്കിലും ആയിരിക്കാം അവൻ കേൾക്കുന്ന എല്ലാ വിവരങ്ങളും രേഖാമൂലമുള്ള രേഖയിലേക്ക് പകർത്തുന്നു റെക്കോർഡ് സൂക്ഷിക്കുന്നതിന്റെ പ്രയോജനങ്ങൾ ഇവയാണ് അതിനാൽ പ്രക്രിയ ഡോക്ടർ രോഗികളെ സന്ദർശിക്കുന്നു ഡോക്ടർ ടെലിഫോണിലെ വിവരങ്ങൾ നിർദ്ദേശിക്കുന്നു മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷനിസ്റ്റ് വോയ്സ് റെക്കോർഡുചെയ്ത് ഡൌൺലോഡ് ചെയ്യുന്നു ടെക്സ്റ്റ് ഫയൽ ട്രാൻസ്ക്രൈബ് ചെയ്യുന്നു ട്രാൻസ്ക്രിപ്ഷൻ പരിശോധിക്കുന്നു ആവശ്യമായ മാറ്റങ്ങൾ വരുത്തി അന്തിമ റിപ്പോർട്ടുകൾ ആശുപത്രിയിൽ സമർപ്പിക്കുന്നു മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ സേവനങ്ങളുടെ 7P കൾ എന്തെല്ലാമാണ് അതിനാൽ ആദ്യത്തെ പി ഉൽപ്പന്നമാണ് ഉപയോഗപ്രദവും റിപ്പോർട്ടുകളുടെ എളുപ്പത്തിലുള്ള പ്രവേശനവും പ്രധാന ഉൽപ്പന്നമാണ് ഫയൽ തയ്യാറാക്കുന്നതിൽ കൃത്യതയും ഗുണനിലവാരവും ആവശ്യമാണ് സ്ഥലം ഇത് ഇന്റർനെറ്റിലുടനീളം വിതരണം ചെയ്യുന്നു ട്രാൻസ്ക്രിപ്ഷൻ സെർവറിൽ ഡോക്ടർക്ക് കാണാൻ കഴിയും വില വില സേവനത്തിന്റെ ഗുണനിലവാരത്തെയും വേഗതയും ആശ്രയിച്ചിരിക്കുന്നു ട്രാൻസ്ക്രിപ്ഷൻ ഉദ്യോഗസ്ഥരുടെ ശമ്പളവും സാങ്കേതിക ചെലവും മൊത്തം ചെലവിന്റെ പ്രധാന ഘടകങ്ങളാണ് ആശുപത്രിക്ക് അതിനായി ജീവനക്കാരെ നിയമിക്കാം അല്ലെങ്കിൽ ഔട്ട്സോഴ്സിംഗ് തിരഞ്ഞെടുക്കാം പ്രമോഷനും പരസ്യവും വ്യക്തിഗത വിൽപ്പനയും ഈ വ്യവസായത്തിലെ നിർണായകമായ പ്രൊമോഷണൽ ടെക്നിക്കാണ് ഇത്തരത്തിലുള്ള മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ സേവനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പ്രധാന മാർഗ്ഗം ഡോക്ടർമാർക്കും ആശുപത്രി മാനേജർമാർക്കും വ്യക്തിഗത വിൽപനയാണ് ആളുകൾ ആവശ്യമായ യോഗ്യതയുള്ള വിദഗ്ദ്ധരായ ഉദ്യോഗസ്ഥർ ഉണ്ടായിരിക്കണം വിവിധ ഭാഷകളെക്കുറിച്ചുള്ള നല്ല അറിവും മെഡിക്കൽ പദങ്ങളും ട്രാൻസ്ക്രിപ്ഷൻ നടത്താൻ ആവശ്യമായ അടിസ്ഥാന കഴിവുകളാണ് പ്രക്രിയ റിപ്പോർട്ട് എഴുത്ത് ബില്ലിംഗ് ഇൻഷുറൻസ് കൂടുതൽ റഫറൻസിനായി റെക്കോർഡ് സൂക്ഷിക്കൽ എന്നിവ പ്രക്രിയയുടെ ഘടകങ്ങളാണ് ഫിസിക്കൽ തെളിവുകൾ വികസിത വിവര സാങ്കേതിക ഇൻഫ്രാസ്ട്രക്ചർ ഓരോ ഉപഭോക്താവിനും കസ്റ്റമൈസ്ഡ് റിപ്പോർട്ട് അത് ഭൌതിക തെളിവാണ് അതിനാൽ ചുരുക്കത്തിൽ മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ ഇലക്ട്രോണിക് രൂപത്തിൽ മെഡിക്കൽ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് പ്രസ്താവിക്കുന്ന ഒരു രേഖയാണെന്ന് നമുക്ക് പറയാം ഇന്ത്യയിൽ മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷന് വളരെയധികം സാധ്യതകളുണ്ട് പക്ഷേ ഇത് സാങ്കേതികവിദ്യ അധിഷ്ഠിത സേവനമായി കാണപ്പെടുന്നതിനാൽ ഇത് വളരെ പ്രസിദ്ധമല്ല റിപ്പോർട്ടുകളിലെ സാങ്കേതിക പുരോഗതിയും കൃത്യതയും പ്രധാന വിജയ ഘടകങ്ങളാണ് സേവന മിശ്രിതങ്ങളിൽ ആളുകൾ ഏറ്റവും നിർണായക ഘടകമാണ് അപ്പോൾ നമ്മൾ പ്രൊഫഷണൽ സേവനങ്ങളിലേക്ക് വരുന്നു അതിനാൽ വിവിധ തരത്തിലുള്ള പ്രൊഫഷണൽ സേവനങ്ങൾ ഉണ്ട് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ആദ്യത്തെ പ്രൊഫഷണൽ സേവനം കൺസൾട്ടൻസി സേവന മാർക്കറ്റിംഗാണ് അതിനാൽ ഒരു പ്രത്യേക മേഖലയിൽ വിദഗ്ദ്ധനായ ഒരു വിദഗ്ദ്ധന്റെ ഉപദേശം നൽകുന്നതാണ് കൺസൾട്ടൻസി ഇന്ത്യയിൽ മാനേജ്മെന്റ് കൺസൾട്ടിംഗ് പരിശ്രമിക്കുന്ന മേഖലയാണ് ഇന്ത്യയിൽ ധാരാളം കൺസൾട്ടിംഗ് സ്ഥാപനങ്ങൾ ഉണ്ടെങ്കിലും അവയിൽ മിക്കതും സാങ്കേതിക കൺസൾട്ടിംഗ് സ്ഥാപനങ്ങളാണ് അതിനാൽ മാനേജ്മെന്റ് കൺസൾട്ടൻസി മാർക്കറ്റ് പരിജ്ഞാനം പരസ്പര ആശയവിനിമയ കഴിവുകൾ എന്നിവ ആവശ്യമാണ് കൺസൾട്ടിംഗ് കഴിവ് ആവശ്യമാണ് മാറുന്ന പരിതസ്ഥിതിയിൽ പ്രവർത്തിക്കാനുള്ള കഴിവ് ആവശ്യമാണ് മാനേജ്മെന്റ് കൺസൾട്ടൻസിയുടെ ഭാഗമായി ധാർമ്മികതയും മൂല്യങ്ങളും ആവശ്യമാണ് അപ്പോൾ നമ്മൾ കൺസൾട്ടിംഗ് തത്വങ്ങളിലേക്ക് പോകുന്നു അതിനാൽ ആദ്യം ക്ലയന്റുകൾക്ക് ആവശ്യമായ കൺസൾട്ട് ക്ലയന്റിന്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കുകയും അവരുടെ ആവശ്യങ്ങൾ മാനിക്കുകയും ചെയ്യുക ഓരോ ക്ലയന്റും അതുല്യനാണെന്ന് ഓർക്കുക ക്ലയന്റിനെ എവിടെയും തെറ്റായി ചിത്രീകരിക്കരുത് സേവനങ്ങളെ അമിതമായി വിൽക്കരുത് മറ്റ് കൺസൾട്ടന്റുകളെ അവഹേളിക്കുന്നത് ഒഴിവാക്കുക ഇത് ഒരു പ്രൊഫഷണൽ സേവനമാണ് എന്ന് ഒരിക്കലും മറക്കരുത് കൂടിയാലോചനയുടെ ഭാഗമായി ഉയർന്ന പ്രൊഫഷണൽ പ്രകടനം ആവശ്യമാണ് അതിനാൽ ഉള്ളടക്കം ഏറ്റവും പ്രധാനമാണ് കൂടാതെ കൺസൾട്ടിംഗ് ഏജൻസി അല്ലെങ്കിൽ കൺസൾട്ടിംഗ് നടത്തുന്ന ആളുകൾക്ക് അവരുടെ പ്രവർത്തനങ്ങളിൽ ഉയർന്ന പ്രൊഫഷണലിസം ഉണ്ടായിരിക്കണം അതിനാൽ ഐടി കൺസൾട്ടന്റുകൾ എച്ച്ആർ കൺസൾട്ടന്റുകൾ മാനേജ്മെന്റ് കൺസൾട്ടന്റുകൾ സ്ട്രാറ്റജി കൺസൾട്ടിംഗ് ഓർഗനൈസേഷൻ കൺസൾട്ടിംഗ് ചേഞ്ച് കൺസൾട്ടിംഗ് എന്നിവയാണ് ഇതിന്റെ വർഗീകരണം അതിനാൽ കൺസൾട്ടിംഗ് കഴിവുകളും ഉപകരണങ്ങളും ആളുകൾ വിഭവങ്ങൾ ആശയങ്ങൾ പുതുമകൾ വിപണനം പ്രവർത്തനം ധനകാര്യം മികച്ച കൺസൾട്ടിംഗ് പ്രൊഫഷണൽ കഴിവുകൾ നൽകുന്നതിന് ആളുകളെ കൺസൾട്ട് ചെയ്യേണ്ട ചില കൺസൾട്ടിംഗ് കഴിവുകളും ഉപകരണങ്ങളും ഇവയാണ് ഒരു സംഗ്രഹം എന്ന നിലയിൽ ഇന്ത്യയിൽ മാനേജ്മെന്റ് കൺസൾട്ടിംഗിന്റെ മാർക്കറ്റിംഗിന് വ്യത്യസ്ത സംസ്കാരത്തിൽ നിന്നും മൂല്യങ്ങളിൽ നിന്നും ക്ലയന്റിനെ കാണാൻ പ്രത്യേക കഴിവുകൾ ആവശ്യമാണെന്ന് നമുക്ക് പറയാം പ്രശസ്തി സൃഷ്ടിക്കുന്നതും നിലവാരമുള്ള സേവനങ്ങൾ തുടർച്ചയായി നൽകുന്നതും ഈ വ്യവസായത്തിലെ പ്രധാന വെല്ലുവിളികളാണ് കൺസൾട്ടന്റുകളുടെ നൈപുണ്യവും കഴിവും പ്രധാന വിജയ ഘടകങ്ങളാണ് പരസ്യ സേവന വിപണനമായ മറ്റൊരു തരത്തിലുള്ള പ്രൊഫഷണൽ സേവനങ്ങളെ കുറിച്ച് ഇനി സംസാരിക്കാം അമേരിക്കൻ മാർക്കറ്റിംഗ് അസോസിയേഷന്റെ അഭിപ്രായത്തിൽ ആശയത്തിന്റെയും ചരക്കുകളുടെയും സേവനങ്ങളുടെയും വ്യക്തിഗതമല്ലാത്ത അവതരണത്തിന്റെ പണമടച്ചുള്ള രൂപമാണ് പരസ്യംചെയ്യൽ ഈ വ്യവസായം കൺസൾട്ടിംഗിനും ഐടി സേവന വ്യവസായത്തിനും സമാനമാണ് മറ്റ് സേവനങ്ങളുടെ വിപണനത്തേക്കാൾ കൂടുതൽ സങ്കീർണ്ണമാണ് പരസ്യ സേവനങ്ങളുടെ വിപണനം അതിനാൽ പരസ്യ സേവനങ്ങളുടെ 6M ചരക്കുകൾ വിപണികൾ ഉദ്ദേശ്യങ്ങൾ മാധ്യമങ്ങൾ അളവുകൾ സന്ദേശങ്ങൾ എന്നിവയാണ് അതിനാൽ ആദ്യം നിർദ്ദിഷ്ട സേവനത്തെ പരസ്യപ്പെടുത്താൻ കഴിയുന്ന വിവിധ തരം ഇനങ്ങൾ ചരക്കുകൾ രൂപകൽപ്പന ചെയ്യുക എന്നതാണ് സേവനങ്ങൾ വിൽക്കേണ്ട വിപണികളുണ്ട് മാധ്യമങ്ങളെ തിരഞ്ഞെടുക്കുന്നതിനുള്ള ചോദ്യമായി പരസ്യം വിപണനം ചെയ്യേണ്ട ലക്ഷ്യങ്ങളാണ് ഉദ്ദേശ്യങ്ങൾ പരസ്യ ഏജൻസി നൽകുന്ന സേവനങ്ങളുടെ അളവെടുപ്പ് എന്നിവയുണ്ട് തുടർന്ന് നിങ്ങൾക്ക് അറിയാവുന്ന പരസ്യ ഏജൻസി രൂപീകരിക്കുന്നതോ സ്ഥാപിക്കുന്നതോ ആയ സന്ദേശമുണ്ട് ഒരുമിച്ച് ആ സന്ദേശം പരസ്യ സേവനത്തിന്റെ പ്രത്യേക ലക്ഷ്യങ്ങളോ ഉദ്ദേശ്യങ്ങളോ വീട്ടിലേക്ക് നയിക്കേണ്ടതുണ്ട് അതിനാൽ പ്രവർത്തനങ്ങൾ ബ്രാൻഡ് അവബോധം സൃഷ്ടിക്കുക ബ്രാൻഡ് ഇമേജ് നിലനിർത്തുക ഉൽപ്പന്ന വിവരങ്ങൾ നൽകുക വാങ്ങാൻ ആളുകളെ പ്രേരിപ്പിക്കുക ബ്രാൻഡ് ഓർമ്മപ്പെടുത്തലുകൾ നൽകുക കഴിഞ്ഞ വാങ്ങൽ ശക്തിപ്പെടുത്തുക എന്നിവയാണ് അതിനാൽ പരസ്യ ഏജൻസിയിലെ പ്രധാന കളിക്കാർ ക്ലയന്റ് ഏജൻസി മാധ്യമം വിതരണക്കാരൻ പ്രേക്ഷകർ എന്നിവരായ പരസ്യദാതാവാണ് പരസ്യ സേവന എപ്പിസോഡിലെ പ്രധാന കളിക്കാർ ഇവരാണ് അതിനാൽ പരസ്യ ഏജൻസി വിപണിയിൽ പ്രവേശിച്ചതിനുശേഷം പരസ്യ സേവനങ്ങൾ ഒരു തൊഴിലായി മാറി മുമ്പത്തെ ഏജൻസികൾ കമ്മീഷൻ അടിസ്ഥാനത്തിൽ പ്രവർത്തിച്ചിരുന്നെങ്കിലും ഇപ്പോൾ ഒരു നിശ്ചിത പദ്ധതിയിൽ നിശ്ചിത തുക പ്രതിഫലം ലഭിക്കുന്നു ഈ വ്യവസായത്തിലെ പ്രധാന വിജയ ഘടകമാണ് ഉള്ളടക്കം ബ്രാൻഡ് ഇമേജ് വികസിപ്പിക്കുന്നതിൽ സർഗ്ഗാത്മകതയും ധാർമ്മികതയും നിർണായക ഘടകമാണ് ഏജൻസികൾ ഉപയോഗിക്കുന്ന സാധാരണ മാർക്കറ്റിംഗ് തന്ത്രമാണ് റിലേഷൻഷിപ്പ് മാർക്കറ്റിംഗ് അതിനാൽ റിലേഷൻഷിപ്പ് മാർക്കറ്റിംഗ് തികച്ചും അത്യന്താപേക്ഷിതമാണ് കാരണം പരസ്യ ഏജൻസിക്ക് പ്രത്യേക ഉപഭോക്താക്കളിൽ നിന്ന് ഓർഡറുകൾ ലഭിക്കുന്നത് തുടരുകയും ദീർഘകാലാടിസ്ഥാനത്തിൽ ലാഭകരവും സുസ്ഥിരവുമായി തുടരാൻ അവർ ഉപഭോക്താക്കളെ നഷ്ടപ്പെടുത്തരുത് അടുത്തതായി വിപണന ഗവേഷണ സേവന മാർക്കറ്റിംഗ് എന്ന മറ്റൊരു തരത്തിലുള്ള പ്രൊഫഷണൽ സേവനങ്ങളിലേക്ക് നമ്മൾ വരുന്നു മാർക്കറ്റിംഗ് ഗവേഷണം അതിനാൽ മാർക്കറ്റിംഗ് ഗവേഷണം തന്ത്രപരമായ രൂപീകരണത്തിൽ വിപണനക്കാരെ സഹായിക്കുന്ന നിർണായക വിപണന പ്രവർത്തനമാണ് ഉപഭോക്തൃ ആവശ്യം തിരിച്ചറിയൽ വിഭജനം ടാർഗെറ്റിംഗ് പൊസിഷനിംഗ് മാർക്കറ്റിംഗ് മിക്സ് തീരുമാനം ബ്രാൻഡിംഗ് പ്രകടന വിലയിരുത്തൽ എന്നിങ്ങനെയുള്ള എല്ലാ മാർക്കറ്റിംഗ് പ്രവർത്തനങ്ങളിലും ഈ തരത്തിലുള്ള എല്ലാ ആവശ്യകതകളിലും മാർക്കറ്റിംഗ് ഗവേഷണം ആവശ്യമാണ് കൂടാതെ ഓർഗനൈസേഷന് സ്വന്തമായി മാർക്കറ്റിംഗ് ഗവേഷണ വിഭാഗം ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ഗവേഷണ സ്ഥാപനങ്ങളുടെ സേവനങ്ങൾ എടുക്കാം പ്രത്യേക സേവനവും കുറഞ്ഞ ചിലവും കാരണം ഓർഗനൈസേഷനും കമ്പനികളും മാർക്കറ്റിംഗ് ഗവേഷണ ഏജൻസികളെയാണ് ഇഷ്ടപ്പെടുന്നത് വർദ്ധിച്ചുവരുന്ന ഈ ആവശ്യം മുതലെടുക്കാൻ ചില സ്ഥാപനങ്ങൾ ഇപ്പോൾ കസ്റ്റമൈസ്ഡ് സേവനങ്ങൾ നൽകുന്നു സമീപകാല സംഭവവികാസങ്ങൾ തന്ത്രപ്രധാനമായ മാർക്കറ്റിംഗ് ഗവേഷണത്തോട് തന്ത്രപരമാവുക അതിനാൽ നേരത്തെ മാർക്കറ്റിംഗ് ഗവേഷണം 4 P കളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ ഇത് ഉപഭോക്താവിനെ തിരഞ്ഞെടുക്കുന്നതുപോലെ കൂടുതൽ തന്ത്രപ്രധാനമാണ് അതിനാൽ അവർ മാർക്കറ്റ് മനസ്സിലാക്കാനും മാർക്കറ്റ് വിഭജിക്കാനും ലക്ഷ്യമിടാനും ശ്രമിക്കും അല്ലെങ്കിൽ കുറച്ച് സെഗ്മെന്റുകളും തുടർന്ന് ഉൽപ്പന്നങ്ങളും സേവനങ്ങളും ഉപഭോക്താക്കളുടെ മനസ്സിൽ പ്രത്യേക സെഗ്മെന്റിൽ സ്ഥാപിക്കുക ഈ മാർക്കറ്റിംഗ് ഗവേഷണ സേവനങ്ങൾക്ക് ഇപ്പോൾ ഉയർന്ന ഡിമാൻഡുണ്ട് മിക്ക ആളുകളും മാർക്കറ്റിംഗ് പഠിക്കുന്നു ഈ മാർക്കറ്റിംഗ് ഗവേഷണ സേവനങ്ങൾ അവർക്ക് ഏതുതരം ഉപഭോക്താക്കളുണ്ടെന്നും ഉപഭോക്താവിന് എന്ത് ആവശ്യകതകളുണ്ടെന്നും അവരോട് പറയാൻ ആഗ്രഹിക്കുന്നു അതുവഴി നിങ്ങൾക്ക് മാർക്കറ്റിംഗ് ഗവേഷണ സ്ഥാപനത്തിന് മാർക്കറ്റ് സ്ഥലത്ത് ഉൽപന്നങ്ങളും സേവനങ്ങളും ലാഭകരമാക്കുന്നതിനുള്ള നിർദേശങ്ങൾ മാർക്കറ്ററുകളോട് പറയുകയും പ്രവർത്തിക്കേണ്ട ദിശ നൽകുകയും ചെയ്യാൻ കഴിയും പുതിയ ഗവേഷണ മേഖലയിലെയും വിപണിയിലെയും വികസനം ഗുണപരമായ ഗവേഷണ ഇൻപുട്ടിനുള്ള ഊന്നൽ സ്വതന്ത്ര ഏജൻസിയിലെ വളർച്ച ഗവേഷണ പ്രക്രിയയിലെ മാറ്റം വലിയ ഡാറ്റ വിശകലനം മാർക്കറ്റിംഗ് ഗവേഷണ സേവന വ്യവസായത്തിലെ സമീപകാല സംഭവവികാസങ്ങളിൽ ചിലത് ഇവയാണ് വിപണന ഗവേഷണ വ്യവസായം അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രശ്നങ്ങൾ വൈവിധ്യമാർന്ന പ്രേക്ഷകരാണ് പ്രത്യേകിച്ചും ഇന്ത്യയിൽ ധാരാളം ഭാഷകളും നിരവധി തരം ആളുകളും ഉണ്ട് സാംസ്കാരിക വൈവിധ്യം ഉണ്ട് ഭാഷകളിൽ വൈവിധ്യമുണ്ട് വൈദഗ്ധ്യമുള്ള ഉദ്യോഗസ്ഥരുടെ കുറവ് അടിസ്ഥാന സൌകര്യങ്ങളുടെ അപര്യാപ്തത ടെലിവിഷൻ ടെലിവിഷൻ പ്രവറുകൾ മൊബൈൽ ഇൻഫ്രാസ്ട്രക്ചറുകൾ എന്നിവ പോലെ വികസനം ഉണ്ട് അതിനാൽ അത് അപര്യാപ്തമാണ് മനോഭാവപരമായ പ്രശ്നങ്ങളുണ്ട് അതായത് മാർക്കറ്റിംഗ് ഗവേഷണം നടത്താൻ പലരും ആഗ്രഹിക്കുന്നില്ല മാർക്കറ്റിംഗ് ഗവേഷണം പണത്തിന്റെ പാഴാക്കലാണെന്ന് അവർ കരുതുന്നു തുടർന്ന് രീതിശാസ്ത്രത്തിൽ ഒരു പ്രശ്നമുണ്ട് അതിനാൽ മാർക്കറ്റിംഗ് ഗവേഷണ സ്ഥാപനം മാത്രമാണ് പ്രത്യേക രീതി ഉപയോഗിക്കുന്നത് എന്നാൽ ആ രീതി ശരിയായ രീതിയാണോ അതോ മറ്റെന്തെങ്കിലും ഉണ്ടായിരിക്കണമോ എന്ന് മനസ്സിലാകുന്നില്ല അതിനാൽ ഒരു സംഗ്രഹ മാർക്കറ്റിംഗ് ഗവേഷണം എല്ലാ മാർക്കറ്റിംഗ് പ്രവർത്തനങ്ങളുടെയും അടിസ്ഥാനമാണ് ഗവേഷണ ഫലങ്ങളിലെ ഏതെങ്കിലും പിശക് കമ്പനിക്ക് വലിയ നഷ്ടമാണെന്ന് തെളിയിക്കാനാകും മാർക്കറ്റിംഗ് ഗവേഷണ സ്ഥാപനങ്ങൾക്ക് മാർക്കറ്റിംഗ് ഗവേഷണത്തിൽ സ്പെഷ്യലൈസേഷൻ ഉണ്ടായിരിക്കണം കൂടാതെ വിദഗ്ദ്ധരായ ഉദ്യോഗസ്ഥരും ഉണ്ടായിരിക്കണം ഇപ്പോൾ ഓർഗനൈസേഷനും ഗവേഷണ സ്ഥാപനവും തമ്മിലുള്ള സംയോജനമാണ് യഥാർത്ഥ മാർക്കറ്റിംഗ് ഓറിയന്റേഷനും മികച്ച പ്രൊഫഷണലിസവും ഉപയോഗിച്ച് ഒരു ഏജൻസിക്ക് വെല്ലുവിളികളെ നേരിടാനും അവരുടെ ബ്രാൻഡ് ഇമേജ് വർദ്ധിപ്പിക്കാനും കഴിയും അടുത്തതായി നമ്മൾ റീട്ടെയിൽ സേവന മാർക്കറ്റിംഗ് പോലുള്ള മറ്റ് പ്രൊഫഷണൽ സേവനങ്ങളിലേക്ക് വരുന്നു അതിനാൽ ഉപഭോക്തൃ ഉൽപ്പന്നങ്ങൾക്കിടയിൽ വർദ്ധിച്ചുവരുന്ന മത്സരം ഓരോ കമ്പനിക്കും വിപണിയിൽ കൂടുതൽ ദൃശ്യത ആവശ്യമാണ് റീട്ടെയിൽ സേവനങ്ങൾ കമ്പനിക്ക് അവരുടെ ഉത്പന്നങ്ങൾ പ്രദർശിപ്പിക്കാനും അവരുടെ ലഭ്യത വർദ്ധിപ്പിക്കാനും ഒരു പ്ലാറ്റ്ഫോം നൽകുന്നു സിംഗിൾ ബ്രാൻഡ് റീട്ടെയിലിംഗും മൾട്ടി ബ്രാൻഡ് റീട്ടെയിലിംഗും ഇന്ത്യയിൽ 2 തരം റീട്ടെയിൽ ആണ് ഇന്റർനെറ്റിന്റെ ആമുഖം ഇലക്ട്രോണിക് വാണിജ്യത്തിൽ ഒരു പുതിയ യുഗം അവതരിപ്പിച്ചു മൊബൈൽ റീട്ടെയിലിംഗ് ആയ ഇ റീട്ടെയിലിംഗും എം റീട്ടെയിലിംഗും പരമ്പരാഗത റീട്ടെയിലിംഗിന്റെ പുതിയ മുഖമാണ് ഇന്ത്യയുടെ ജിഡിപിയിൽ റീട്ടെയിൽ മാർക്കറ്റിന് കാര്യമായ സംഭാവനയുണ്ട് ചില്ലറ വ്യാപാരികൾ ബൾക്ക് തകർക്കുകയും വിതരണ ശൃംഖലയിലെ ഉപഭോക്താക്കളുമായി നേരിട്ട് ബന്ധപ്പെടുകയും ചെയ്യുന്നു റീട്ടെയിൽ സേവന വിപണനത്തിന്റെ 7 P കൾ എന്തൊക്കെയാണ് ആദ്യത്തെ പി ഉൽപ്പന്നമാണ് അതിനാൽ ഉൽപ്പന്ന മാനേജുമെന്റ് ഉൽപ്പന്ന സവിശേഷതകൾ ബ്രാൻഡിംഗ് പാക്കേജിംഗ് വിൽപ്പനാനന്തര സേവനങ്ങൾ ഇവയാണ് ഉൽപ്പന്നം വില പ്രോത്സാഹനം മത്സരബുദ്ധി പണത്തിനുള്ള മൂല്യം പദവി ചെലവ് ലാഭം മുതലായവ പ്രൊമോഷൻ പരസ്യം വില്പന പ്രൊമോഷൻ പബ്ലിക് റിലേഷൻ നേരിട്ടുള്ള വിപണനം പിന്നെ ഇന്റർനെറ്റും ഇവയെല്ലാം റീട്ടെയിൽ ഉൽപന്നങ്ങൾ റീട്ടെയിൽ സേവനങ്ങൾ എന്നിവയെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള മാർഗങ്ങളാണ് സ്ഥലം ചാനൽ മാനേജ്മെന്റ് റീട്ടെയിൽ വിതരണം ഏജന്റ് സ്റ്റോർ ലൊക്കേഷൻ റീട്ടെയിൽ ലോജിസ്റ്റിക്സ് റീട്ടെയിലർ ചിത്രം റീട്ടയിൽ സേവനങ്ങളുടെ വിതരണത്തിന്റെ ഭാഗമാണ് ഇവ ആളുകൾ സ്റ്റാഫ് ശേഷി ഉപഭോക്തൃ ഇടപെടൽ വിൽപ്പനാനന്തര സേവനം ഇന്റേണൽ മാർക്കറ്റിംഗ് കസ്റ്റമർ കെയർ പ്രതിനിധി ചില്ലറ ശൃംഖലയിലെ പ്രധാന ആളുകൾ ഇവരാണ് ഓർഡർ പ്രോസസ്സിംഗ് ഡാറ്റാബേസ് മാനേജ്മെന്റ് സർവീസ് ഡെലിവറി ക്യൂയിംഗ് സിസ്റ്റം വെയർഹൌസിംഗ് വിൽപ്പനാനന്തര സേവനം എന്നിവ ഉൾപ്പെടുന്നതാണ് പ്രക്രിയ സ്റ്റോർ ലൊക്കേഷൻ അന്തരീക്ഷം സ്റ്റോർ മാനേജുമെന്റ് ഭക്ഷണ ശാല എന്നിവയാണ് ഭൌതിക തെളിവുകൾ ഇവയെല്ലാം ഭൌതിക തെളിവുകളുടെ പ്രധാന ഘടകങ്ങളാണ് ഇവയിൽ പലതും ഇതിനകം ഇന്ത്യയിൽ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട് കൂടാതെ നിരവധി മാളുകൾ ഉയർന്നുവന്നിട്ടുണ്ട് ചില്ലറ ആവശ്യകതകൾ നിറവേറ്റുന്നതിനായി ആളുകൾ ഈ മാളുകൾ സന്ദർശിക്കുന്നു ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും ആവശ്യകതകളും ഉൽപ്പന്നങ്ങളും സേവനങ്ങളും വാങ്ങുന്നതിൽ അവർ തിരക്കിലായിരിക്കുമ്പോൾ അവർക്ക് സിനിമകൾ പോലുള്ള മറ്റ് ചില വിനോദങ്ങളും ആവശ്യമാണ് അല്ലെങ്കിൽ അവരുടെ വിശപ്പ് തൃപ്തിപ്പെടുത്താൻ നിങ്ങൾക്കറിയാവുന്ന ചിലതരം ഭക്ഷണവും അവർ ആഗ്രഹിക്കുന്നു അതിനാൽ ഫുഡ് കോർട്ടുകൾ ഏതെങ്കിലും റീട്ടെയിൽ മാളിലും മറ്റും പ്രാധാന്യമർഹിക്കുന്നു ചുരുക്കത്തിൽ വിവരസാങ്കേതികവിദ്യ വികസനം ചില്ലറവ്യാപാരത്തിന്റെ ഘടനയെ മാറ്റി ഫിസിക്കൽ സ്റ്റോറുകൾക്ക് പകരം ഇ റീട്ടെയിലർ വന്നു സാമ്പത്തിക വികസനത്തിന് ചില്ലറവിൽപ്പന ഒരു പ്രധാന സംഭാവന നൽകുന്നു സിംഗിൾ ബ്രാൻഡ് റീട്ടെയിലിംഗിൽ നിരവധി വിദേശ കളിക്കാർ വിപണിയിൽ തങ്ങളുടെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് എന്നിരുന്നാലും മൾട്ടി ബ്രാൻഡ് റീട്ടെയിലിംഗിൽ ഇപ്പോൾ ഇന്ത്യയിൽ എഫ്ഡിഐ അനുവദനീയമല്ല ഇന്ത്യയിൽ സംഘടിത ചില്ലറ വിൽപ്പനയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അസംഘടിത ചില്ലറവ്യാപാരത്തിന് വലിയ പങ്കുണ്ട് ഫിസിക്കൽ റീട്ടെയിലിംഗിൽ പ്രക്രിയ പ്രധാന പങ്ക് വഹിക്കുകയും ഓൺലൈൻ റീട്ടെയിലിംഗിൽ പ്രൊമോഷൻ നിർണായക പങ്ക് വഹിക്കുകയും ചെയ്യുന്നു അതിനാൽ അത്രയേയുള്ളൂ ഇന്നത്തേക്ക് ഇന്നലത്തെ അധ്യായം 4 ആയിരുന്നു ഇത് കേസ് പഠനം 4 അദ്ധ്യായം 5 ലെ അടുത്ത കേസിലേക്ക് നമ്മൾ പോകും അതുവരെ നല്ല സമയം ആസ്വദിക്കൂ